പ്രഭാഷണം 02 എഞ്ചിനീയറിംഗ് ഡ്രോയിംഗിന്റെ ആമുഖം II എല്ലാവര്ക്കും ഹലോ നമ്മുടെ എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് കോഴ്സിലേക്ക് സ്വാഗതം എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് ആമുഖത്തിൽ നമ്മൾ മൊഡ്യൂൾ 1 ഇലെ പ്രഭാഷണം 2ൽ ആണ് നില്കുന്നത് ഞങ്ങളുടെ കോഴ്സ് ഉള്ളടക്കങ്ങൾ ചുരുക്കത്തിൽ എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് കോണിക് വിഭാഗങ്ങൾ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനുകൾ സെക്ഷൻസ് ഐസോമെട്രിക് പ്രൊജക്ഷനുകൾ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിന്റെ ഒരു അവലോകനം ഒരു ഡിസൈൻ പ്രോജക്റ്റ് എന്നിവയാണ് Bhatt എഞ്ചിനീയറിംഗ് ഡ്രോയിംഗും എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് വിത്ത് ഓട്ടോകാഡ് മാണ് നമ്മുടെ അടിസ്ഥാന പാഠപുസ്തകങ്ങൾ നമ്മൾ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിനെക്കുറിച്ച് പഠിക്കുമ്പോൾ എഞ്ചിനീയറിംഗ് ഡ്രോയിംഗുകളുടെ ആദ്യ ഭാഗത്തിൽ സോളിഡ് വർക്കിനുള്ള ഒരു ആമുഖം നമ്മൾ ഉപയോഗിക്കും രണ്ടാമത്തെ പ്രഭാഷണത്തിൽ നമ്മുടെ ഡ്രോയിംഗ് കോഴ്സിൽ ഉപയോഗിക്കുന്ന ഡ്രോയിംഗ് ഉപകരണങ്ങളും അക്ഷരങ്ങളും നമ്മൾ ഉൾക്കൊള്ളിക്കും ഡ്രോയിംഗ് ഷീറ്റുകൾ ഡ്രോയിംഗ് ഷീറ്റ് കവർ ചെയ്യുന്നതിനുള്ള ഡ്രോയിംഗ് ബോർഡ് ഡ്രാഫ്റ്റർ അല്ലെങ്കിൽ ടി സ്ക്വയർ സെറ്റ് സ്ക്വയറുകൾ പ്രൊട്ടക്റ്റർ എന്നിവയാണ് സ്റ്റാൻഡേർഡ് ഡ്രോയിംഗ് ഉപകരണങ്ങളും അനുബന്ധ ഉപകരണങ്ങളും ഇടയ്ക്കിടെ നമ്മൾ കോമ്പസും ഡിവൈഡറുകളും ഉപയോഗിക്കുന്നു ഒരു ഡ്രോയിംഗിന്റെ പ്രധാന ഭാഗം പെൻസിലുകളും ഇറേസറുമാണ് പോയിന്റുകൾ ബന്ധിപ്പിക്കുന്നതിന് നമ്മൾ ഫ്രഞ്ച് കർവുകൾ ഉപയോഗിക്കുന്നു സാധാരണയായി നമ്മൾ ഫ്രീഹാൻഡ് സ്കെച്ച് ആണ് ഉപയോഗിക്കുന്നത് പക്ഷേ നമ്മൾ ഫ്രഞ്ച് കർവുകളും ഉപയോഗിക്കേണ്ടതുണ്ട് പേപ്പർ ഉറപ്പിക്കാൻ നമുക്ക് പേപ്പർ ക്ലിപ്പുകളും പിന്നുകളും ആവശ്യമാണ് പെൻസിൽ മൂർച്ച കൂട്ടാൻ സാൻഡ്പേപ്പർ ഷാർപ്നർ അല്ലെങ്കിൽ ബ്ലേഡുകൾ ആവശ്യമാണ് ഡ്രോയിംഗ് ഉപകരണങ്ങളിലും അനുബന്ധ ഉപകരണങ്ങളിലും ഒരു ഡ്രോയിംഗ് ഷീറ്റ് ഉപയോഗിക്കുന്നു ഇവിടെ ഒരു നിശ്ചിത വീതിയും നീളവും ഉള്ള ഒരു ഡ്രോയിംഗ് ഷീറ്റ് ടെംപ്ലേറ്റ് നമുക്ക് കാണാൻ കഴിയും ഇത് വളരെ നീളമുള്ള ചതുരാകൃതിയിലുള്ള ഷീറ്റ് ഡ്രോയിംഗ് പേപ്പറാണ് 1189 മില്ലിമീറ്റർ നീളവും 841 മില്ലിമീറ്റർ വീതിയും ഉള്ള എ0 പോലുള്ള വ്യത്യസ്ത ഫോർമാറ്റുകളായി ഈ ഡ്രോയിംഗ് ഷീറ്റുകളെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് തരം തിരിച്ചിരിക്കുന്നു സാധാരണയായി തിരശ്ചീന ദിശയിൽ നീണ്ട വശവും ലംബമായി ഹ്രസ്വ വശവും നമ്മൾ സൂക്ഷിക്കുന്നു എ1 പോലുള്ള മറ്റ് ഷീറ്റുകളും ലഭ്യമാണ് അതായത് 849 മില്ലിമീറ്റർ മുതൽ 594 മില്ലിമീറ്റർ വരെ ഉള്ളത് അതിനാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഡ്രോയിംഗ് ഷീറ്റുകളിൽ നമുക്ക് ഒരു ഡയഗണൽ ആവർത്തനം കാണാൻ കഴിയും എ2 ഇന് 594mm മുതൽ 420mm വരെ എ3 ഇന് 420mm മുതൽ 297mm വരെ എ4 ഇന് 297mm മുതൽ 210mm വരെ അതിനാൽ ഡ്രോയിംഗ് ഷീറ്റുകളിൽ ഈ ആവർത്തിച്ചുള്ള പാറ്റേൺ നമുക്ക് പറയാൻ കഴിയും സാധാരണയായി ഡ്രോയിംഗ് ഷീറ്റുകളിൽ അവയുടെ ത്രിമാന വസ്തുക്കളുടെ പ്രൊജക്ഷനുകൾ അടങ്ങിയിരിക്കുന്നു നിങ്ങൾ മുൻവശം നിന്ന് നോക്കുകയാണെങ്കിൽ ആ ഡ്രോയിംഗ് എങ്ങനെ കാണപ്പെടുന്നു സൈഡ് നിന്ന് നോക്കുകയാണെങ്കിൽ ആ ഡ്രോയിംഗ് എങ്ങനെ കാണപ്പെടുന്നു അതിനർത്ഥം ഒരുപക്ഷേ ഈ ദിശയിൽ വസ്തു യഥാർത്ഥത്തിൽ ചെരിഞ്ഞ പ്രൊജക്ഷനുകൾ പോലെ കാണപ്പെടുന്നുവെന്നും മെറ്റീരിയൽ ഭാഗമുള്ള കട്ട് വിഭാഗങ്ങളുണ്ടെങ്കിൽ ഒരു ഹാഷായി അത് കാണിച്ചിരിക്കുന്നു കൂടാതെ അതിൽ പിന്നുകൾ ജോയിന്റുകൾ വിവിധതരം കട്ട് വിഭാഗങ്ങൾ എന്നിവ ഉണ്ടായിരിക്കാം അവയെയും പ്രതിനിധീകരിക്കാം ഈ ഓരോ ഭാഗത്തെയും പ്രതിനിധീകരിക്കുന്നതിന് ഒരു പ്രത്യേക തരം അക്ഷരങ്ങൾ ഉപയോഗിക്കാം ആ ഡ്രോയിംഗ് ഷീറ്റിന്റെ ഉടമസ്ഥാവകാശം പോലുള്ള ഒന്ന് നമുക്ക് കാണാം അത് നിർമ്മിച്ച ആളുടെ പേരും വസ്തുക്കളും ഗുണവിശേഷങ്ങളും മറ്റും ഉൾക്കൊള്ളുന്നു അതിൽ നിരവധി വേരിയബിളുകൾ ഡയഗ്രമുകൾ അക്ഷരങ്ങൾ എന്നിവ അടങ്ങിയിരിക്കുന്നു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഇലും ഇലക്ട്രോണിക്സ എഞ്ചിനീയറിംഗ് ഇലും ഒരു ഘടകം ആരെങ്കിലും നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ഘടകത്തെ പ്രതിനിധീകരിക്കേണ്ടതുണ്ട് അളവുകൾ വലുപ്പം സങ്കീർണ്ണമായ വിശദാംശങ്ങൾ എല്ലാം പ്രതിനിധീകരിക്കേണ്ടതുണ്ട് ചുരുക്കത്തിൽ ഈ സ്കെച്ചുകൾ നമ്മൾ വരയ്ക്കുന്ന ഡ്രോയിംഗ് ഷീറ്റാണ് സാധാരണയായി നമ്മൾ ബി എസ് മാനദണ്ഡങ്ങൾ ആണ് ശുപാർശ ചെയ്യുന്നത് ആ ഡ്രോയിങ്ങിന്റെ ശീർഷകത്തിൽ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും ചിത്രപരമായി എ0 എ1 എ2 എ3 എ4 A0 A1 A2 A3 A4 വലുപ്പത്തെ പ്രതിനിധീകരിക്കുന്നതിന് നമ്മൾ വളരെ വലിയ ഒരു ഡ്രോയിംഗ് ഷീറ്റ് ഉപയോഗിക്കുന്നു അതിൽ പകുതി നിങ്ങൾക്ക് എ1 നൽകുന്നു ആ പകുതി നിങ്ങൾക്ക് എ2 കൂടാതെ എ3 എ4 എന്നിവ നൽകുന്നു അതിനാൽ ചോദ്യോത്തരങ്ങൾ എഴുതുന്നതിനോ അല്ലെങ്കിൽ മെറ്റീരിയൽ അച്ചടിക്കുന്നതിനോ നമ്മൾ പരമ്പരാഗതമായി ഉപയോഗിക്കുന്ന ഷീറ്റാണ് എ4 നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് പേജ് ഈ എ4 ആണ് എ4 നെ സംബന്ധിച്ചിടത്തോളം എ0 വളരെ വലുതാണ് ഒരാൾ ഉപയോഗിക്കേണ്ട മികച്ച ഡ്രോയിംഗ് ഷീറ്റ് ഏതാണ് ഡ്രോയിംഗിനെക്കുറിച്ചും റെസല്യൂഷനെക്കുറിച്ചും പൂർണ്ണ വ്യക്തത നൽകാൻ കഴിയുന്ന ഏറ്റവും ചെറിയ ഡ്രോയിംഗ് ഷീറ്റ് ഒരാൾ ഉപയോഗിക്കേണ്ടതുണ്ട് ഒരാൾ ഉപയോഗിക്കേണ്ട ഏറ്റവും മികച്ച ഡ്രോയിംഗ് ഷീറ്റ് അതാണ് ഒബ്ജക്റ്റ് ചെറുതും അതിൽ കുറച്ച് ഘടകങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ എ2 ഷീറ്റ് ഉപയോഗിക്കുന്നത് നല്ലതാണ് ഒബ്ജക്റ്റ് വളരെ വലുതും ധാരാളം ഘടകങ്ങളുടെ വിശദാംശങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എ0 ആവശ്യമാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഡ്രോയിംഗ് ഷീറ്റിൽ ഒരു ഡ്രോയിംഗ് സ്പേസ് കുറച്ച് ബോർഡർലൈനുകൾ ഒരു ടൈറ്റിൽ ബ്ലോക്ക് എന്നിവ ഉൾപ്പെടുന്നു നീളമുള്ള വശം തിരശ്ചീന ദിശയിലാണ് ഹ്രസ്വ വശം എല്ലായ്പ്പോഴും ലംബ ദിശയിലായിരിക്കും ഡ്രോയിംഗ് ഷീറ്റിന് ശേഷം അടുത്ത ഉദ്യമം ഡ്രോയിംഗ് ഷീറ്റ് ഉറപ്പിക്കുക എന്നതാണ് അതിന് നമുക്ക് ഒരു ഡ്രോയിംഗ് ബോർഡ് ആവശ്യമാണ് ഡ്രോയിംഗ് ബോർഡുകളുടെ വ്യത്യസ്ത ഇനങ്ങൾ ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്നു ക്ലാസിക്കൽ ബോർഡ് മരം ഘടന ഉപയോഗിക്കുന്നു അതിനാൽ നിങ്ങളുടെ പേന പെൻസിൽ ഡ്രോയിംഗ് ഉപകരണങ്ങൾ എന്നിവ സൂക്ഷിക്കാൻ ഒരു കമ്പാർട്ടുമെന്റും ഡ്രോയിംഗ് ഷീറ്റ് പിടിപ്പിക്കാൻ ഒരു ചരിഞ്ഞ പ്രതലവും ആണ് ഈ ഡ്രോയിംഗ് ബോർഡുകൾ മെറ്റാലിക് ഉപരിതലത്തിലും പ്ലാസ്റ്റിക്കിലും ഉപയോഗിച്ച് നിർമ്മിക്കാൻ കഴിയും ഡ്രോയിംഗ് ബോർഡ് വലുപ്പം എല്ലായ്പ്പോഴും ഈ ഡ്രോയിംഗ് ഷീറ്റിനേക്കാൾ വലുതാണ് ഉദാഹരണത്തിന് ഞങ്ങൾ എ0 ഷീറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ഡ്രോയിംഗ് ബോർഡ് വലുപ്പം 1500 മില്ലീമീറ്ററിനേക്കാൾ 1000 മില്ലീമീറ്റർ വീതിയും 25 മില്ലീമീറ്റർ കനം ഉണ്ടായിരിക്കണം ഒരാൾ എ3 ഷീറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ആവശ്യമായ ഡ്രോയിംഗ് ബോർഡ് ഡി3 വലുപ്പമാണ് ഡ്രോയിംഗ് ടേബിളിന് അടുത്തായി വരകൾ വരയ്ക്കുന്നതിന് നമുക്ക് ഒരു ഡ്രാഫ്റ്റർ അല്ലെങ്കിൽ ടി സ്ക്വയർ ആവശ്യമാണ് ഉദാഹരണത്തിന് ഇവിടെ ഒരു മെക്കാനിക്കൽ ഡ്രാഫ്റ്റർ കാണിച്ചിരിക്കുന്നു ഡ്രാഫ്റ്റർ ഒരു ക്ലാമ്പാണ് അതിലൂടെ ഡ്രോയിംഗ് ബോർഡിലേക്ക് ഡ്രാഫ്റ്റർ ശരിയാക്കാനാകും അൺസ്ക്രൂവിംഗ് സ്ക്രൂവിംഗ് unscrewing screwing ചെയ്യുന്നതിലൂടെ ഒരാൾക്ക് ആ ക്ലാമ്പുമായി ബന്ധിപ്പിക്കാൻ കഴിയും കൂടാതെ ഉള്ള മെക്കാനിക്കൽ ബാറുകൾ അതിലൂടെ തിരശ്ചീനവും ലംബവുമായ ദിശകൾ നേടാൻ കഴിയുന്ന ഒരു സ്ഥാനത്ത് ആയിരിക്കും ഇത് അൺസ്ക്രൂ ചെയ്യുന്നതിലൂടെ ഈ അളക്കൽ സ്കെയിൽ തിരിക്കാനും ഏത് ചെരിവ് ദിശയും കൂട്ടിച്ചേർക്കാനും കഴിയും ഡ്രാഫ്റ്റിംഗ് പട്ടികയോ ഡ്രോയിംഗ് ഷീറ്റോ അനുസരിച്ച് ഒരു തിരശ്ചീന രേഖ വരയ്ക്കുക എന്നതാണ് ഡ്രാഫ്റ്ററിന്റെ ലക്ഷ്യം ഈ ഡ്രാഫ്റ്റർ ഉപയോഗിച്ച് ഒരാൾക്ക് പൂർണ്ണമായ ലംബ വരകൾ വരയ്ക്കാൻ കഴിയും നിങ്ങൾ ഈ ഡ്രാഫ്റ്റർ എവിടെ നീക്കിയാലും അത് എല്ലായ്പ്പോഴും തിരശ്ചീനവും ലംബവുമായ ദിശകൾ മാത്രം കാണിക്കുന്നു ഈ ഡ്രാഫ്റ്ററുകളും വ്യത്യസ്ത തരം ആകാം മിനി ഡ്രാഫ്റ്റർ എന്ന് ഞങ്ങൾ വിളിക്കുന്ന ലളിതമായ ഡ്രാഫ്റ്റർ ഇവിടെ കാണിച്ചിരിക്കുന്നു വളരെ നൂതന ഡ്രാഫ്റ്ററുകളും ഉണ്ട് അവ ഇവിടെ കാണിച്ചിരിക്കുന്നു അതിനാൽ ഈ സ്ലൈഡർ മുന്നോട്ടും പിന്നോട്ടും പോകുമ്പോൾ തിരശ്ചീന ലംബ വരകൾ ആ ദിശയിലേക്ക് വരയ്ക്കാൻ കഴിയും മുൻ ദിവസങ്ങളിൽ ആളുകൾ ടി സ്ക്വയറുകളുമായി പോകാറുണ്ടായിരുന്നു അതിനാൽ ഇത് ടി രൂപത്തിലാണ് അതിനാൽ ഈ ബ്ലോക്ക് ഡ്രോയിംഗ് ടേബിളുമായി വിന്യസിച്ചുകഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു തിരശ്ചീന രേഖ വരയ്ക്കാൻ കഴിയും ഡ്രാഫ്റ്ററിനൊപ്പം മറ്റൊരു അവശ്യ ഘടകം സെറ്റ് സ്ക്വയറുകളാണ് ഇവ സാധാരണയായി 45 ഡിഗ്രിയിലും 30 60 ഡിഗ്രിയിലും വരുന്നു ഇവിടെ ചെരിവ് ആംഗിൾ 45 ഡിഗ്രിയാണ് ഇതും 45 ഡിഗ്രിയാണ് ഇത് 90 ഡിഗ്രിയാണ് മിനി ഡ്രാഫ്റ്റർ ഉപയോഗിച്ച് ഒരു ചെരിഞ്ഞ വര വരയ്ക്കാൻ ഒരാൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അയാൾ സെറ്റ് സ്ക്വയർ ഇവിടെ സൂക്ഷിക്കുകയും ആ ദിശയിൽ ഒരു രേഖ വരയ്ക്കുകയും ചെയ്യും മറ്റെ സെറ്റ് സ്ക്വയറിൽ ഈ വശത്ത് 30 ഡിഗ്രിയും ഈ വശത്ത് 60 ഡിഗ്രിയുമാണ് വരുന്നത് ശേഷിക്കുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ് ചില സെറ്റ് സ്ക്വയറുകളിൽ ഇത്തരത്തിലുള്ള സങ്കീർണ്ണമായ കർവ് പാറ്റേണുകളും അടങ്ങിയിരിക്കുന്നു സാധാരണയായി ഇവ അക്രിലിക് പ്ലാസ്റ്റിക്കുകളാണ് അതിനാൽ സുതാര്യവും ഒരാൾക്ക് സ്കെയിൽ ശ്രദ്ധിക്കാനും ഈ സ്ലോട്ടുകൾക്കൊപ്പം വരികൾ ഇടാനും കഴിയും മറ്റൊരു അവശ്യ ഘടകം പ്രൊട്ടക്റ്റർ ആണ് അതിലൂടെ ആ പോയിന്റ് ഉണ്ടാക്കിയ ഇന്കളിനേഷൻ ആംഗിൾ ശ്രദ്ധിക്കാൻ കഴിയും സമാന്തരവും ലംബവും ചെരിഞ്ഞതുമായ വരകൾ വരയ്ക്കുന്നതിന് നമ്മൾ ഈ ഡ്രാഫ്റ്ററുകൾ ഉപയോഗിക്കുകയും സ്ക്വയറുകൾ സജ്ജമാക്കുകയും ചെയ്യുന്നു മറ്റ് ഡ്രോയിംഗ് ഘടകങ്ങൾ കോമ്പസും ഡിവിഡറുകളും ആണ് സ്റ്റാൻഡേർഡ് ജ്യാമിതീയ ബോക്സിൽ ഈ കോമ്പസ് അടങ്ങിയിരിക്കുന്നു ഇത് ഉപയോഗിച്ച് ഒരാൾക്ക് ഈ വസ്തുവിനെ നടുക്ക് നിർത്തി ആ സ്ലോട്ടിലൂടെ പെൻസിൽ സൂക്ഷിച്ച് ഒരു വൃത്തം വരയ്ക്കാൻ കഴിയും ഒരാൾക്ക് ഒരു തികഞ്ഞ വൃത്തം ഒരു ആർക്ക് എന്നിവ വരയ്ക്കാൻ കഴിയും മറ്റൊന്ന് ഡിവിഡറാണ് ഒരു ഡിവൈഡർ ഉപയോഗിച്ച് ഒരാൾക്ക് ദൈർഘ്യം ട്രാക്കുചെയ്യാനും കൈമാറാനും കഴിയും ഉദാഹരണത്തിന് രണ്ട് പോയിന്റുകൾ ഉണ്ട് ആ നീളം എന്താണെന്ന് നേരിട്ട് അളക്കുന്നതിനുപകരം അതിനിടയിലുള്ള ദൂരം കൈമാറാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനു വേണ്ടി നമ്മൾ ഡിവൈഡർ ഉപയോഗിക്കുന്നു അത് പരിഹരിച്ചുകഴിഞ്ഞാൽ അതേ സ്ഥലത്ത് മറ്റൊരു പോയിന്റ് ഉപയോഗിച്ച് ആ നീളം കൈമാറുന്നതിനായി നമ്മൾ ഡിവൈഡറുകൾ ഉപയോഗിക്കുന്നു ഈ കോമ്പസുകൾ വ്യത്യസ്ത ഗുണനിലവാരവും കരുത്തും ഉള്ളവയാണ് സങ്കീർണ്ണമായവയ്ക്ക് നല്ല മെറ്റാലിക് ഫ്രെയിമുകളുണ്ട് അതിനാൽ പിടുത്തം എല്ലായ്പ്പോഴും നല്ലതായിരിക്കും പെൻസിൽ ലെഡ് ചേർക്കാൻ കഴിയുന്ന ഭാഗമാണിത് ഇത് കോമ്പസിന്റെ മറ്റൊരു ശൈലിയാണ് ബോ കോമ്പസ് എന്നാണ് നമ്മൾ ഇതിനെ സാധാരണയായി വിളിക്കുന്ത് ലെഡ് നമുക്ക് ഇവിടെ സൂക്ഷിക്കാം ഇത് കോമ്പസിന്റെ ചേരുന്ന ഭാഗമാണ് ഒരാൾക്ക് ഇവിടെ പെൻസിൽ ലെഡ് ചേർക്കാൻ കഴിയും ഇവിടെ പെൻസിൽ ലെഡ്കൾ കാണിച്ചിരിക്കുന്നു സാധാരണ എഞ്ചിനീയറിംഗ് കോമ്പസ് ഡിവൈഡറുകൾ വ്യത്യസ്ത ഫോർമാറ്റുകളിൽ വരുന്നു ആപ്ലിക്കേഷനെ അടിസ്ഥാനമാക്കി ഒരാൾ ഈ കോമ്പസ്സുകൾ ഉപയോഗിക്കുന്നു ഏത് ഡ്രോയിംഗിന്റെയും പ്രധാന ഘടകം പെൻസിൽ ആണ് സാധാരണ പെൻസിലുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് സ്കെച്ച് പെൻസിലുകൾ വ്യത്യസ്ത ഗ്രേഡുകൾ ഉൾക്കൊള്ളുന്നു സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്ന ഗ്രാഫൈറ്റ് ലെഡ്ഡിന്റെ കാഠിന്യത്തെ അടിസ്ഥാനമാക്കി 16 ഗ്രേഡുകൾ ആണ് ഉള്ളത് ഉദാഹരണത്തിന് 9 എച്ച് വളരെ കഠിനമായ ഗ്രാഫൈറ്റ് ആണ് ഒരാൾക്ക് 6 എച്ച് 5 എച്ച് 4 എച്ച് 6H 5H 4H എന്നിവ വളരെ കഠിനമായിരിക്കും 3 എച്ച് വളരെ ഹാർഡ് പെൻസിലായിരിക്കും എച്ച് തരത്തിനു B മിതമായ മൃദുത്വം ഉള്ളതും കറുത്തതും 2 ബി പെൻസിലുകൾ മൃദുവും കറുപ്പും ആയിരിക്കും 3 ബി പെൻസിലുകൾ വളരെ മൃദുവും കറുപ്പും 7 ബി പെൻസിലുകൾ ഏറ്റവും മൃദു ആയിരിക്കും അതിനാൽ ഇവിടെ ഇടത് വശത്ത് 6 ബി 5 ബി ബി 5 എച്ച് 4 എച്ച് 6B 5B B 5H 3H 4H നൊട്ടേഷനുകൾ പോലുള്ള വ്യത്യസ്ത പെൻസിലുകൾ നമുക്ക് കാണാം അതിനു താഴെ ഞങ്ങൾ പെൻസിൽ നിർമ്മിക്കുന്ന നിറവും ആ പെൻസിൽ നിർമ്മിക്കുന്ന ദൃശ്യതീവ്രതയും കാണാം ഈ കോഴ്സിനായി ശുപാർശ ചെയ്യുന്ന പെൻസിലുകൾ ഈ നാല് ഗ്രേഡുകളാണ് 3 എച്ച് 2 എച്ച് എച്ച് എച്ച്ബി 3H 2H H HB എന്നിവ ആണ് പരാമർശിക്കുന്ന പെൻസിലിന്റെ ഗ്രേഡുകൾ 2 എച്ച് ഉപയോഗിച്ച് നിർമ്മിച്ച രേഖകൾ ഒരുപക്ഷേ അളവു രേഖകൾ മധ്യരേഖകൾ എന്നിവ നിർമ്മിക്കുന്നതിന് വേണ്ടി ആണ് ഒബ്ജക്റ്റ് ലൈനുകളും ലെറ്ററിംഗും എച്ച് ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത് ഡൈമെൻഷനിംഗിനെക്കുറിച്ചും അതിർത്തി രേഖകളെക്കുറിച്ചും എന്തെങ്കിലും ആണെങ്കിൽ ഒരാൾ എച്ച്ബി പെൻസിൽ ഉപയോഗിക്കണം മൊത്തത്തിൽ ബി ഗ്രേഡ് പെൻസിലുകളിൽ കൂടുതൽ ഗ്രാഫൈറ്റ് അടങ്ങിയിരിക്കുന്നു നമ്മൾ പട്ടികയിലേക്ക് നോക്കുകയാണെങ്കിൽ ബി എല്ലായ്പ്പോഴും കൂടുതൽ ഗ്രാഫൈറ്റ് ഉൾക്കൊള്ളുകയും ബോൾഡും ഇരുണ്ടതുമായ ഒരു രേഖ ഉണ്ടാക്കുകയും ചെയ്യുന്നു മാത്രമല്ല ഈ രേഖകൾ ഇളം പെൻസിലിനേക്കാൾ ചെറുതാണ് നമ്മൾ ഒരു എച്ച് ഗ്രേഡ് പെൻസിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ കളിമണ്ണ് അടങ്ങിയിരിക്കുന്നു ഭാരം കുറഞ്ഞതും മികച്ചതുമായ വരകൾ വരയ്ക്കാനും ഇരുണ്ട പെൻസിലിനേക്കാൾ മൃദുലത കുറയ്ക്കാനും ഇതിനു കഴിയും ഇനി നമുക്ക് ഫ്രഞ്ച് കർവുകളെ കുറിച്ച് പഠിക്കാം ഉദാഹരണത്തിന് എനിക്ക് മൂന്ന് ഡാറ്റാ പോയിന്റുകൾ ഉണ്ടെങ്കിൽ ഒരാൾക്ക് അത്തരമൊരു അനിയന്ത്രിതമായ ഫ്രീഹാൻഡ് സ്കെച്ച് വരയ്ക്കാം അല്ലെങ്കിൽ ഒരു ഫ്രഞ്ച് കർവ് ഉപയോഗിക്കാം അതുവഴി പോയിന്റ് ആ വക്രത്തിലൂടെ കടന്നുപോകാനും നല്ല മിനുസമാർന്ന ലൈനിലൂടെ ബന്ധിപ്പിക്കാനും കഴിയും ഈ ഫ്രഞ്ച് കർവു കൾ ഓയിലറ് സ്പൈറൽ നിന്ന് നിർമ്മിച്ച ഭാഗങ്ങളാണ് യൂളർ സ്പൈറലിന്റെ ഒരു ഭാഗം ഉപയോഗിച്ചാണ് ഈ ഫ്രഞ്ച് കർവ് നിർമിച്ചിരിക്കുന്നത് സ്വതന്ത്രമായ വളവുകൾ വരയ്ക്കാൻ ഉദ്ദേശിച്ചാണ് ഇത് നിർമിച്ചിരിക്കുന്നത് ഉദാഹരണത്തിന് നിരവധി നോൺ കോളിനിയർ പോയിന്റുകളിലൂടെ കടന്നുപോകുന്ന സുഗമമായ വക്രം ഉണ്ട് എന്ന് ചിന്തിക്കുക ഒരു വക്രത്തെ പ്രതിനിധീകരിക്കുന്നതിന് നമ്മൾ ഫ്രഞ്ച് കർവുകൾ ഉപയോഗിക്കുന്നു സാധാരണയായി നീളമുള്ള ഫ്രഞ്ച് കർവുകൾ പരാബോളയ്ക്കായി ഉപയോഗിക്കുന്നു ഹ്രസ്വമായ ഫ്രഞ്ച് കർവുകൾ ദീർഘവൃത്തത്തിനും ഇടത്തരം ഫ്രഞ്ച് കർവുകൾ ഹൈപ്പർബോളകൾക്കുമായി ഉപയോഗിക്കുന്നു അതിൽ വ്യത്യസ്ത എലിപ്റ്റിക് കർവുകളും അടങ്ങിയിരിക്കുന്നു അതിനാൽ വക്രത്തിന്റെ ഫ്രീ ഫോം ആവശ്യമുള്ളപ്പോഴെല്ലാം നമ്മൾ ഈ ഫ്രഞ്ച് കർവുകൾ ഉപയോഗിക്കുന്നു മരം നിർമ്മിക്കുന്നതിനും മുറിക്കുന്നതിനും പോലും ആളുകൾ മികച്ച ഫിനിഷ് ലഭിക്കുന്നതിന് മെറ്റാലിക് ഫ്രഞ്ച് കർവുകൾ ഉപയോഗിക്കുന്നു പേപ്പർ ക്ലിപ്പുകളും പിന്നുകളും ആണ് മറ്റ് ഡ്രോയിംഗ് ഉപകരണങ്ങളും അനുബന്ധ ഉപകരണങ്ങളും അതിനാൽ നമുക്ക് ഒരു ഡ്രോയിംഗ് ബോർഡ് ഉള്ളപ്പോഴെല്ലാം ആ ഡ്രോയിംഗ് ബോർഡിൽ ഡ്രോയിംഗ് ഷീറ്റ് പിടിപ്പിക്കേണ്ട ആവശ്യം ഉണ്ട് ഇത് പിടിപ്പിക്കാൻ നമ്മൾ ഈ ക്ലിപ്പ് ക്രമീകരണം ഉപയോഗിക്കുന്നു ഡ്രോയിംഗ് ഷീറ്റ് മുറുകെ പിടിക്കാൻ നമുക്ക് ഈ ക്ലിപ്പുകൾ ആവശ്യമാണ് ചിലപ്പോൾ ആളുകൾ പിന്നുകളും ഉപയോഗിക്കുന്നു ചിലപ്പോൾ പെൻസിൽ മൂർച്ച കൂട്ടാൻ നമുക്ക് സാൻഡ്പേപ്പർ ആവശ്യമാണ് മാത്രമല്ല അൽപ്പം വിശാലമായ വരകൾ വരക്കാൻ നമ്മൾ സാൻഡ്പേപ്പറിൽ സാധാരണയായി പെൻസിൽ ഉരക്കും വളരെ മൂർച്ചയുള്ള കോണുകൾ ലഭിക്കാൻ നമ്മൾ ഈ ഷാർപ്നർ ഉപയോഗിക്കുന്നു ശുപാർശ ചെയ്യുന്ന ഇറേസർ സ്റ്റെയ്ഡ്ലർ ആണ് ഇത് ഉപയോഗിച്ചു വളരെ സുഗമമായി മായ്ക്കാൻ കഴിയും ഡ്രോയിംഗ് ബോർഡ് ഷീറ്റ് പെൻസിലുകൾ ഷാർപ്നർ ക്ലിപ്പുകൾ കോമ്പസ് ഡിവൈഡർ സെറ്റ് സ്ക്വയറുകൾ എന്നിവ പോലുള്ള അവശ്യ ഡ്രോയിംഗ് ഉപകരണങ്ങൾക്ക് ശേഷം അക്ഷരങ്ങൾ എങ്ങനെ വരയ്ക്കാമെന്നതാണ് നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം ഈ വിഭാഗത്തിൽ ഡ്രോയിംഗിൽ ഉൾപ്പെട്ടിരിക്കുന്ന അക്ഷര ശൈലികൾ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു അക്ഷരമാലയും അക്കങ്ങളും എഴുതുന്ന രീതിയാണ് ലെറ്ററിങ് ഉദാഹരണത്തിന് ഞങ്ങൾ എ ബി സി ഡി ഇസെഡ് A B C D and Z എന്നീ വലിയ അക്ഷരങ്ങളും 0 1 2 3 മുതൽ 9 വരെ ഘടകങ്ങളും ഉപയോഗിക്കുന്നു സാധാരണയായി ഫ്രീഹാൻഡ് ലെറ്ററിങ് ആണ് ശുപാർശ ചെയ്യുന്നത് അതും ഒരു ഗോതിക് ശൈലിയിലാണ് ഉപയോഗിക്കുന്നത് ഈ ശൈലിയിൽ സാധാരണ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഒരു സ്ഥിരമായ രേഖ ലംബമായ സ്ട്രോക്കുകളുള്ള നേരായ ഗോതിക് ബേസ്ലൈനിന് ലംബമായി അല്ലെങ്കിൽ ചെരിഞ്ഞ ഗോതിക് എന്നിവ ആണ് ഒന്നുകിൽ നമ്മൾ നേരായ ലംബ എ അല്ലെങ്കിൽ ഒരു ചെരിഞ്ഞ എ ഉപയോഗിക്കുന്നു ഈ ചെരിവ് 75 ഡിഗ്രി ആണെങ്കിൽ ഒരു ഗൈഡ് ലൈൻ ഉണ്ടാകും ആ ഗൈഡ് ലൈനുകളിൽ നമുക്ക് ഏതെങ്കിലും അക്ഷരങ്ങൾ വരയ്ക്കാം അക്ഷരങ്ങളുടെ ഉയരം നിയന്ത്രിക്കുന്നതിന് സാധാരണയായി 3 മില്ലിമീറ്റർ മാർഗ്ഗനിർദ്ദേശം ആണ് ഉപയോഗിക്കുന്നത് അതിനാൽ നമ്മുടെ അക്ഷരങ്ങൾ 3 മില്ലിമീറ്ററിൽ കുറവായിരിക്കണം വലിയ അക്ഷരങ്ങളുടെ ഉയരത്തിനു 2 5 മില്ലിമീറ്റർ ഉപയോഗിക്കുന്നു വരികളുടെ കനത്തിനു നമ്മൾ 0 18 മില്ലീമീറ്റർ ഉപയോഗിക്കുന്നു അത് മനസിലാക്കാൻ വലതുവശത്ത് നമുക്ക് ഈ ഐ അക്ഷരം ഉണ്ട് അത് എഛ് ന്റെ ഉയരവും ഡി ന്റെ വീതിയും ഉള്ളതാണ് അതിനാൽ ഇവിടെ എഛ് 2 5 മില്ലിമീറ്ററും ഡി 0 18 മില്ലിമീറ്ററുമാണ് അതുപോലെ നമ്മൾ ചെറിയ അക്ഷരങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ 2 5 മില്ലിമീറ്റർ ഉപയോഗിക്കണം അല്ലെങ്കിൽ അതിൽ കുറവ് ഉപയോഗിക്കണം പ്രതീകങ്ങൾക്കിടയിലുള്ള ദൂരം ഉദാഹരണത്തിന് ഈ പ്രതീകവും ആ പ്രതീകവും തമ്മിലുള്ള അകലം 0 35 മില്ലിമീറ്റർ ഉപയോഗിക്കേണ്ടതുണ്ട് നമ്മൾ 2 5 മില്ലിമീറ്ററും 0 18 മില്ലിമീറ്ററും കട്ടിയുള്ള അക്ഷരങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു അക്ഷരത്തിൽ നിന്നും മറ്റൊരു അക്ഷരം വരെ ഉള്ള ദൂരം 0 35 മില്ലിമീറ്ററായിരിക്കണം അടിസ്ഥാന പ്രതീകങ്ങളുടെ മിനിമം സ്പെയ്സിംഗ് പോലുള്ള മറ്റ് ഇനങ്ങളും ഉണ്ട് കൂടാതെ വാക്കുകൾ തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ സ്പെയ്സിംഗും പരാമർശിക്കുന്നു അത്തരത്തിലുള്ള അക്ഷരശൈലി ഉപയോഗിച്ച് നമുക്ക് മുന്നോട്ട് പോയി സ്കെച്ചുകൾ വരച്ച് അവയെ പ്രതിനിധീകരിക്കാം ശൈലിയിലുള്ള സാധാരണ ലെറ്ററിങ്ൽ ടൈറ്റിൽ ബ്ലോക്കുകൾ സബ്ടൈറ്റിലുകൾ തലക്കെട്ടുകൾ ലെജൻഡസ് ഷെഡ്യൂളുകൾ മെറ്റീരിയൽ ലിസ്റ്റുകൾ എന്നിവ പോലുള്ള കുറിപ്പുകൾക്കായി ഇത് എഴുതുന്നു ഉദാഹരണത്തിന് ശീർഷക ബ്ലോക്കാണെങ്കിൽ നമ്മൾ 10 മില്ലിമീറ്റർ തരത്തിലുള്ള അക്ഷരങ്ങൾ ഉപയോഗിക്കുന്നു ശീർഷക ഡ്രോയിംഗുകൾക്ക് നമ്മൾ 6 മില്ലിമീറ്റർ തരത്തിലുള്ളവയാണ് ഉപയോഗിക്കുന്നത് സബ്ടൈറ്റിലുകൾ ഉപയോഗിക്കുന്നതിന് 3 മില്ലിമീറ്ററും ഏതെങ്കിലും ടോളറൻസുകൾ 2 മില്ലിമീറ്റർ ഉപയോഗിച്ച് പ്രതിനിധീകരിക്കുന്നു ഇന്നത്തെ ക്ലാസ്സിൽ ഡ്രോയിംഗ് ഉപകരണങ്ങളും ഈ ഡ്രോയിംഗുകളുടെ അക്ഷരങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടുത്ത ക്ലാസ്സിൽ ഡ്രോയിംഗിൽ ഉൾപ്പെട്ടിരിക്കുന്ന ലേഔട്ട് കളെക്കുറിച്ചും നമ്മൾ നിർമ്മിക്കാൻ പോകുന്ന ജ്യാമിതീയ വളവുകളെക്കുറിച്ചും അളവുകളും ടോളറൻസുകളും എങ്ങനെ പ്രതിനിധീകരിക്കാമെന്നും നമ്മൾ പഠിക്കും അടുത്ത ക്ലാസ്സിൽ കാണാം